അതിനാൽ ഞങ്ങൾ ഇതുവരെ ചെയ്തത് ഈ സമവാക്യം അമൂർത്തമായി ശരിയാണ് അതിനാൽ ഒരു 1D പ്രശ്നം ശരിയാണെന്ന് ഞങ്ങൾ പെട്ടെന്ന് പരിശോധിക്കും അതിനാൽ ഈ 1D പ്രശ്നം ഞങ്ങൾ തരംഗ സമവാക്യം ശരിയാക്കും അതിനാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന തരംഗ സമവാക്യം ലളിതമാണ് ഇത് ഒരു 1D സമവാക്യമാണ് അതിനാൽ ഇത് കേവലം ശരിയാണ് അതിനാൽ ഇപ്പോൾ ഞങ്ങൾ സമവാക്യങ്ങളുടെ സിസ്റ്റം പരിഹരിക്കുന്നതിലേക്ക് പോകുന്നില്ല കാരണം നിങ്ങൾക്ക് ഒരു അതിർത്തി അവസ്ഥയുടെ ഒരു ഉദാഹരണം തരൂ എന്ന് ഞാൻ നിങ്ങളോട് അൽപ്പം പറയാൻ ആഗ്രഹിക്കുന്നു അതിനാൽ അതിർത്തി വ്യവസ്ഥകളെ കുറിച്ച് നമ്മൾ ഇതുവരെ സംസാരിച്ചിട്ടില്ല അതിനാൽ ഇതാണ് 1D പ്രശ്നം അതായത് x ദിശയിൽ വലത്തേക്ക് തിരമാല ഇതുപോലെ പോകുന്നു അതിനാൽ നമുക്ക് ഇവിടെത്തന്നെ ഒരു കോർഡിനേറ്റ് സിസ്റ്റം എടുക്കാം അതിനാൽ x ഉം നമുക്ക് ഈ y ഉം z ഉം ഉണ്ടാക്കാം വൈദ്യുത മണ്ഡലം y അക്ഷത്തിൽ വലതുവശത്താണെന്ന് ഞാൻ പറയാൻ പോകുന്നു അതിനാൽ തരംഗം x ലൂടെ ഏത് വഴിയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ഏത് ദിശയിലായിരിക്കണമെന്ന് നമ്മൾ H എടുക്കും z വലത് നിങ്ങളുടെ വലതു കൈ ചുരുളൻ നിയമം വലത് അതിനാൽ തിരമാല ശരിക്ക് നീങ്ങുന്ന ദിശ എനിക്ക് നൽകുന്നു അതിനാൽ ഇ ഞാൻ ഇവിടെ എന്റെ വേരിയബിളായി എടുക്കാൻ പോകുന്നു ശരി ഒരു വിമാന തരംഗം എങ്ങനെയായിരിക്കുമെന്ന് ഞങ്ങൾക്കറിയാം അതിനാൽ വിശദമായ കണക്കുകൂട്ടലുകളില്ലാതെ എനിക്ക് അവിടെ H ന്റെ രൂപം എഴുതാൻ കഴിയുമോ E യുടെ കാന്തിമാനവും H യുടെ കാന്തിമാനവും തമ്മിലുള്ള ബന്ധമാണോ അവിടെ ഒരു സ്വതന്ത്ര ഇടത്തിന്റെ ഇംപെഡൻസ് അവകാശം അതിനാൽ ഇവിടെ എന്തുതന്നെയായാലും ഫ്രീ സ്പേസ് 377 ന്റെ തടസ്സം ഇതാണ് അതിനാൽ ഇത് എന്റെ ഇ ഇതാണ് എന്റെ എച്ച് ശരി ഇപ്പോൾ ഇത് എഴുതുന്നതിന് മറ്റൊരു വഴിയുണ്ട് അത് ഇ ലഭിക്കുന്നതിനുള്ള മറ്റൊരു മാർഗമാണ് ഞാൻ ഉദ്ദേശിച്ചത് എച്ച് ലഭിക്കുന്നതിനുള്ള യഥാർത്ഥ മാർഗമാണ് ഞാൻ എപ്പോൾ എടുക്കുന്നുവോ അത് ശരിയാണ് അതിനാൽ ഞാൻ ഈ സമവാക്യം ഇവിടെ ലളിതമാക്കുമ്പോൾ അതിജീവിക്കുന്ന ഒരു പദമേ ഉള്ളൂ അത് ഒരു ഇത് ലളിതമായ 1D തരംഗ സമവാക്യമാണ് ഇത് എങ്ങനെ പരിഹരിക്കാമെന്ന് ഞങ്ങൾക്കറിയാം അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്ത് എഴുതാം അത് എല്ലായിടത്തും ഉണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും അതിനാൽ നമുക്ക് അതിനെ ഒരു സ്കെയിലർ സമവാക്യമാക്കി മാറ്റാം നിങ്ങൾക്ക് എന്താണ് ലഭിക്കുന്നത് അതിനാൽ ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ ഈ സമവാക്യം എവിടെയാണ് സാധുതയുള്ളത് ഇത് എല്ലായിടത്തും സാധുവാണ് ഏത് പോയിന്റ് എടുത്താലും x ഈ സമവാക്യം സാധുവായിരിക്കണം കാരണം അടിസ്ഥാനപരമായി ഇത് E ഉം H ഉം തമ്മിലുള്ള ബന്ധം ശരിയാണ് നിങ്ങൾ ഈ സമവാക്യത്തിന്റെ അടിസ്ഥാന അർത്ഥം നോക്കിയാൽ E യുടെയും Hയുടെയും അനുപാതം അത്രയേയുള്ളൂ ഇപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഒരു ബൌണ്ടറി അവസ്ഥയായി മാറുന്നു കാരണം എനിക്ക് വേവ് സമവാക്യത്തിനുള്ള പരിഹാരമായി ഒരു തരംഗ സമവാക്യം ലഭിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറയാം ഇപ്പോൾ ശൂന്യമായ സ്ഥലത്തല്ല പക്ഷേ ഇവിടെ ഒരു ഗ്ലാസ്സ് ബ്ലോക്ക് പറയാം എന്റെ തരംഗം ഇങ്ങനെയാണ് സഞ്ചരിക്കുന്നത് അതിൽ ചിലത് പ്രതിഫലിക്കും ചിലത് ഒന്നിലധികം പ്രതിഫലനങ്ങളിലൂടെ കടന്നുപോകും എന്തെങ്കിലും സംഭവിക്കും ഇത് സംഖ്യാപരമായി ശരിയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഞാൻ പറയാൻ പോകുന്നത് ഇത് എന്റെ കമ്പ്യൂട്ടേഷണൽ ഡൊമെയ്നിന്റെ അവസാനമാക്കും ഇപ്പോൾ ഞാൻ ഇവിടെ എഴുതിയ ഈ സമവാക്യം ഈ ഘട്ടത്തിലും ഈ ഘട്ടത്തിലും ശരിയായിരിക്കണം അതിനാൽ ഇതാണ് യഥാർത്ഥത്തിൽ അതെ എന്നതിലെ അതിർത്തി വ്യവസ്ഥ ഇത് ഒരു അതിർത്തി വ്യവസ്ഥയാണ് ഞാൻ അതിർത്തിയിൽ അതിർത്തി വ്യവസ്ഥ എഴുതരുത് ഇത് ഒരു അതിർത്തി വ്യവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് മുമ്പത്തെ കോഴ്സുകളിൽ നിങ്ങൾ ഡിറിച്ച്ലെറ്റ് അതിർത്തി വ്യവസ്ഥകൾ കണ്ടിട്ടുണ്ട് ഡിറിച്ലെറ്റ് അതിർത്തി വ്യവസ്ഥ എന്ത് പറയും എന്താണ് Dirichlet അതിർത്തി വ്യവസ്ഥ വിദ്യാർത്ഥി ഇത് സ്ഥിരമാണ് സ്ഥിരമായ ശരി ശരി മറ്റ് അതിർത്തി വ്യവസ്ഥ എന്താണ് വിദ്യാർത്ഥി ന്യൂമാൻ ന്യൂമാൻ അതെന്താണ് ഈ അതിർത്തി അവസ്ഥ എങ്ങനെയായിരുന്നു ഇത് ഡിറിച്ലെറ്റ് ആണോ ഇത് ന്യൂമാൻ ആണോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ബൌണ്ടറിയിൽ വെച്ച് ന്യൂമാൻ ബൌണ്ടറി അവസ്ഥയാണോ ന്യൂമാൻ അതിർത്തി വ്യവസ്ഥ ഈ പദം സ്ഥിരമാണെന്ന് അർത്ഥമാക്കും പക്ഷേ എനിക്ക് ഇതിനെ ഒരു ഡിറിച്ലെറ്റ് അതിർത്തി അവസ്ഥ എന്നും വിളിക്കാൻ കഴിയുമെങ്കിൽ കാരണം ഞാൻ ഈ പദം നോക്കുകയാണെങ്കിൽ വാസ്തവത്തിൽ ഇത് രണ്ടിലൊന്നല്ല ഇത് മൂന്നാമത്തെ തരത്തിലുള്ള അതിർത്തി വ്യവസ്ഥയാണ് ഇതിനെ റോബിൻ അതിർത്തി അവസ്ഥ എന്ന് വിളിക്കുന്നു ചില ആളുകൾ ഇതിനെ മറ്റൊരു കൂട്ടം ആളുകൾ ഇതിനെ ഇംപെഡൻസ് ബോർഡറി അവസ്ഥ എന്നും മറ്റൊരു കൂട്ടം ആളുകൾ ഇതിനെ എ എന്നും വിളിക്കും വിദ്യാർത്ഥി സോമർഫെൽഡ് അതെ സോമർഫെൽഡിന് നിരവധി പേരുകളുണ്ട് ചില ആളുകൾ ഇതിനെ റേഡിയേഷൻ അതിർത്തി എന്ന് വിളിക്കുന്നു അതിനാൽ ഓരോ സമൂഹവും ഈ അതിർത്തി അവസ്ഥ വീണ്ടും കണ്ടെത്തുകയും അതിന് അവരുടെ പേര് നൽകുകയും ചെയ്യുന്നു അതിനാൽ സർക്യൂട്ടുകൾ ആളുകളുടെ ഗുണനിലവാരമുള്ള ഇംപെഡൻസ് അതിർത്തി അവസ്ഥ ചിതറിക്കിടക്കുന്ന ആളുകൾ ഇതിനെ റേഡിയേഷൻ അതിർത്തി അവസ്ഥ എന്ന് വിളിക്കുന്നു എന്നാൽ ആശയം നിങ്ങൾക്ക് ഫംഗ്ഷന്റെ ഒരു രേഖീയ സംയോജനമുള്ളതിനാലും അതിന്റെ ഡെറിവേറ്റീവ് 0 വലത്തേക്ക് സജ്ജമാക്കിയതിനാലുമാണ് അപ്പോൾ പൊതുവേ അതെന്താണ് ഇത് നമുക്കുള്ള ഒരുതരം അതിർത്തി വ്യവസ്ഥയാണ് അതിനാൽ നിങ്ങൾ ഇത് ദുർബലമായ രൂപത്തിൽ ഇവിടെ ഓർക്കുകയാണെങ്കിൽ എൻഡ്പോയിന്റ് പദത്തിന് അവകാശമുണ്ട് അതിനാലാണ് ഇത് ഉപയോഗപ്രദമാകാൻ പോകുന്നത് ഈ മറ്റൊരു പദത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇത് മാറ്റിസ്ഥാപിക്കും ഇത് എങ്ങനെ ലളിതമാക്കുന്നുവെന്ന് നമുക്ക് നോക്കാം അതിനാൽ FEM ഫ്രെയിംവർക്ക് ഉപയോഗിച്ച് ഈ സമവാക്യം പരിഹരിക്കാനുള്ള ശ്രമത്തിൽ ഞങ്ങൾ പിന്നീട് തുടരും